വെയർ ടു ലുക്ക് ഫോർ ഇൻവെൻഷൻസ് കണ്ടെത്തലുകൾക്കായി എവിടെ നോക്കണം വെയർ ടു ലുക്ക് ഫോർ ഇൻവെൻഷൻസ് കണ്ടെത്തലുകൾക്കായി എവിടെ നോക്കണം കണ്ടെത്തലുകൾ ഗവേഷണ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നോ ഗവേഷണ ഫലങ്ങളിൽ നിന്നോ ഉണ്ടാകാം കണ്ടെത്തലുകൾ ഗവേഷണ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നോ ഗവേഷണ ഫലങ്ങളിൽ നിന്നോ ഉണ്ടാകാം ഒരു ഗവേഷകന്റെ പ്രബന്ധത്തിൽ നിന്ന് അവ ഉണ്ടായേക്കാം ഒരു ഗവേഷകന്റെ പ്രബന്ധത്തിൽ നിന്ന് അവ ഉണ്ടായേക്കാം ഒരു കൂട്ടം ആളുകൾ ഒരു പ്രശ്നം ഏറ്റെടുത്ത് പരിഹരിക്കാൻ നടത്തുന്ന പ്രശ്നപരിഹാര അഭ്യാസങ്ങളുടെ ഫലമായും അവ ഉണ്ടായേക്കാം അവ ബ്രയിൻ സ്റ്റോർമിങ് സെഷനുകളുടെ ഫലമായും ഉണ്ടായേക്കാം ഒരു കൂട്ടം ആളുകൾ ഒരു പ്രശ്നം ഏറ്റെടുത്ത് പരിഹരിക്കാൻ നടത്തുന്ന പ്രശ്നപരിഹാര അഭ്യാസങ്ങളുടെ ഫലമായും അവ ഉണ്ടായേക്കാം അവ ബ്രയിൻ സ്റ്റോർമിങ് സെഷനുകളുടെ ഫലമായും ഉണ്ടായേക്കാം ചിലപ്പോൾ അവ പ്രോജക്റ്റുകളുടെ ഫലമായി ഉണ്ടായേക്കാം ചിലപ്പോൾ അവ പ്രോജക്റ്റുകളുടെ ഫലമായി ഉണ്ടായേക്കാം പ്രോജക്റ്റ് ചെയ്യുന്ന വ്യക്തി പ്രോജക്റ്റ് ചെയ്യുന്ന പ്രക്രിയയിൽ ചിലപ്പോൾ കണ്ടെത്തലുകൾ നടത്തിയേക്കാം പ്രോജക്റ്റ് ചെയ്യുന്ന വ്യക്തി പ്രോജക്റ്റ് ചെയ്യുന്ന പ്രക്രിയയിൽ ചിലപ്പോൾ കണ്ടെത്തലുകൾ നടത്തിയേക്കാം കണ്ടത്തെലുകൾ വിവിധ സ്ഥലങ്ങളിൽ പ്രകടമാക്കപ്പെടും കണ്ടത്തെലുകൾ വിവിധ സ്ഥലങ്ങളിൽ പ്രകടമാക്കപ്പെടും നിങ്ങൾക്ക് സ്കൂളുകളിൽ സയൻസ് പ്രോജക്റ്റുകളിൽ കണ്ടെത്തലുകൾ കാണാൻ കഴിയും നിങ്ങൾക്ക് സ്കൂളുകളിൽ സയൻസ് പ്രോജക്റ്റുകളിൽ കണ്ടെത്തലുകൾ കാണാൻ കഴിയും പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ചെയ്യുന്ന സർവ്വകലാശാലാ സൃഷ്ടികളിൽ നിങ്ങൾക്ക് അവ കണ്ടെത്താനാകും പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ചെയ്യുന്ന സർവ്വകലാശാലാ സൃഷ്ടികളിൽ നിങ്ങൾക്ക് അവ കണ്ടെത്താനാകും പേറ്റന്റ് ലഭിക്കുന്ന കണ്ടെത്തലുകളുമായി വിജ്ഞാനാധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾ നടത്തുന്ന കണ്ടത്തെലുകളിൽ നിങ്ങൾക്ക് പേറ്റന്റ് ലഭിക്കാൻ സാധ്യതയുള്ള കണ്ടെത്തലുകൾ കാണാൻ കഴിയും പേറ്റന്റ് ലഭിക്കുന്ന കണ്ടെത്തലുകളുമായി വിജ്ഞാനാധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾ നടത്തുന്ന കണ്ടത്തെലുകളിൽ നിങ്ങൾക്ക് പേറ്റന്റ് ലഭിക്കാൻ സാധ്യതയുള്ള കണ്ടെത്തലുകൾ കാണാൻ കഴിയും ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്ന ഗവേഷണ ലബോറട്ടറികളിൽ നടക്കുന്ന പല ഗവേഷണത്തിന്റെയും അന്തിമ ഫലം പേറ്റന്റ് പരിരക്ഷാ സാധ്യതയുള്ള ഉത്പന്നങ്ങളിൽ കലാശിക്കുന്ന കണ്ടെത്തലുകൾ ആയിരിക്കാം ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്ന ഗവേഷണ ലബോറട്ടറികളിൽ നടക്കുന്ന പല ഗവേഷണത്തിന്റെയും അന്തിമ ഫലം പേറ്റന്റ് പരിരക്ഷാ സാധ്യതയുള്ള ഉത്പന്നങ്ങളിൽ കലാശിക്കുന്ന കണ്ടെത്തലുകൾ ആയിരിക്കാം ഗവേഷണ വികസന വകുപ്പ് ഉൾപ്പെടുന്ന കമ്പനികളാണെങ്കിൽ കണ്ടെത്തലുകൾ അവിടെ നിന്നും വരാം ഗവേഷണ വികസന വകുപ്പ് ഉൾപ്പെടുന്ന കമ്പനികളാണെങ്കിൽ കണ്ടെത്തലുകൾ അവിടെ നിന്നും വരാം അതുപോലെ വെളിപ്പെടുത്തലുകളിൽ കണ്ടെത്തലുകൾ കണ്ടെത്താൻ കഴിയും അതുപോലെ വെളിപ്പെടുത്തലുകളിൽ കണ്ടെത്തലുകൾ കണ്ടെത്താൻ കഴിയും വെളിപ്പെടുത്തൽ ഒരു കണ്ടെത്തലിന്റെ രേഖാമൂലമുള്ള വിവരണമാണ് വെളിപ്പെടുത്തൽ ഒരു കണ്ടെത്തലിന്റെ രേഖാമൂലമുള്ള വിവരണമാണ് അത് ഒരു പ്രസിദ്ധീകരണത്തിന്റെ രുപത്തിലുമായിരിക്കാം അത് ഒരു പ്രസിദ്ധീകരണത്തിന്റെ രുപത്തിലുമായിരിക്കാം എന്നാൽ പ്രസിദ്ധികരണത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ പ്രസിദ്ധികരണത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പേറ്റന്റിലെ പുതുമയെ പ്രസിദ്ധികരണത്തിന് ഇല്ലാതാക്കാൻ കഴിയും കാരണം പേറ്റന്റിലെ പുതുമയെ പ്രസിദ്ധികരണത്തിന് ഇല്ലാതാക്കാൻ കഴിയും പേറ്റന്റ് നിയമ പ്രകാരം നിങ്ങൾ ആദ്യം വെളിപ്പെടുത്തലുകൾ പേറ്റന്റ് ഓഫീസിൽ നടത്തേണ്ടതുണ്ട് പേറ്റന്റ് നിയമ പ്രകാരം നിങ്ങൾ ആദ്യം വെളിപ്പെടുത്തലുകൾ പേറ്റന്റ് ഓഫീസിൽ നടത്തേണ്ടതുണ്ട് അതായത് കണ്ടത്തെലിനെ കുറിച്ച് നിങ്ങൾ പേറ്റന്റ് ഓഫീസിൽ വെളിപ്പെടുത്താതെ ആദ്യം പൊതു മണ്ഡലത്തിൽ വെളിപ്പെടുത്തിയാൽ അത് ആദ്യ ഘടകമായ പുതുമ അല്ലെങ്കിൽ നൂതനം എന്ന വശത്തെ ഇല്ലാതാക്കുകയാണ് അതായത് കണ്ടത്തെലിനെ കുറിച്ച് നിങ്ങൾ പേറ്റന്റ് ഓഫീസിൽ വെളിപ്പെടുത്താതെ ആദ്യം പൊതു മണ്ഡലത്തിൽ വെളിപ്പെടുത്തിയാൽ അത് ആദ്യ ഘടകമായ പുതുമ അല്ലെങ്കിൽ നൂതനം എന്ന വശത്തെ ഇല്ലാതാക്കുകയാണ് കണ്ടെത്തൽ പുതുമയുള്ളതാകണം എന്ന വശത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണ് കണ്ടെത്തൽ പുതുമയുള്ളതാകണം എന്ന വശത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണ് അപ്രകാരം സംഭവിച്ചാൽ നിങ്ങളുടെ കണ്ടത്തെലിനെ പേറ്റന്റ് ചെയ്യാൻ പറ്റുകയില്ല അപ്രകാരം സംഭവിച്ചാൽ നിങ്ങളുടെ കണ്ടത്തെലിനെ പേറ്റന്റ് ചെയ്യാൻ പറ്റുകയില്ല അതിനാൽ നിങ്ങൾക്ക് പ്രസിദ്ധീകരണങ്ങളിൽ വെളിപ്പെടുത്തലുകൾ കണ്ടെത്താൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് പ്രസിദ്ധീകരണങ്ങളിൽ വെളിപ്പെടുത്തലുകൾ കണ്ടെത്താൻ കഴിയും എന്നാൽ പ്രസിദ്ധീകരണങ്ങൾക്ക് നിങ്ങളുടെ കണ്ടത്തെലിന്റെ പുതുമയെ നശിപ്പിക്കാൻ കഴിയും എന്നാൽ പ്രസിദ്ധീകരണങ്ങൾക്ക് നിങ്ങളുടെ കണ്ടത്തെലിന്റെ പുതുമയെ നശിപ്പിക്കാൻ കഴിയും ലാബ് കുറിപ്പുകളിൽ അല്ലെങ്കിൽ പ്രബന്ധം പോലുള്ള രേഖാമൂലമുള്ള വെളിപ്പെടുത്തലുകളിൽ അല്ലെങ്കിൽ ചെയ്ത ജോലിയുടെ ഏതെങ്കിലും തരത്തിലുള്ള രേഖാമൂലമുള്ള വിവരണത്തിൽ ഇവയിലൊക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾ കണ്ടെത്താൻ കഴിയും ലാബ് കുറിപ്പുകളിൽ അല്ലെങ്കിൽ പ്രബന്ധം പോലുള്ള രേഖാമൂലമുള്ള വെളിപ്പെടുത്തലുകളിൽ അല്ലെങ്കിൽ ചെയ്ത ജോലിയുടെ ഏതെങ്കിലും തരത്തിലുള്ള രേഖാമൂലമുള്ള വിവരണത്തിൽ ഇവയിലൊക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾ കണ്ടെത്താൻ കഴിയും കണ്ടെത്തലുകളുടെ പ്രാരംഭ പതിപ്പുകളായ പ്രോട്ടോടൈപ്പുകളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾ കണ്ടെത്താനാകും കണ്ടെത്തലുകളുടെ പ്രാരംഭ പതിപ്പുകളായ പ്രോട്ടോടൈപ്പുകളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾ കണ്ടെത്താനാകും ഒരു കണ്ടെത്തൽ പ്രദർശിപ്പിക്കുകയോ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രകടനങ്ങളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾ കണ്ടെത്താനാകും ഒരു കണ്ടെത്തൽ പ്രദർശിപ്പിക്കുകയോ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രകടനങ്ങളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾ കണ്ടെത്താനാകും കമ്പ്യൂട്ടറിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രതേകിച്ച് അതിന്റെ ബീറ്റ പതിപ്പുകളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾ കണ്ടെത്താനാകും കമ്പ്യൂട്ടറിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രതേകിച്ച് അതിന്റെ ബീറ്റ പതിപ്പുകളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾ കണ്ടെത്താനാകും അതായത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾ കണ്ടെത്താൻ കഴിയും എന്നർത്ഥം അതായത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾ കണ്ടെത്താൻ കഴിയും എന്നർത്ഥം പക്ഷെ നിങ്ങൾ കണ്ടെത്തലിനെ വാചകവത്കരിക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ പേറ്റന്റ് സ്പെസിഫിക്കേഷൻ തയ്യാറാക്കാൻ കഴിയുന്ന തരത്തിൽ വെളിപ്പെടുത്തൽ നൽകേണ്ടതാണ് പക്ഷെ നിങ്ങൾ കണ്ടെത്തലിനെ വാചകവത്കരിക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ പേറ്റന്റ് സ്പെസിഫിക്കേഷൻ തയ്യാറാക്കാൻ കഴിയുന്ന തരത്തിൽ വെളിപ്പെടുത്തൽ നൽകേണ്ടതാണ്